കോമൺ സോഴ്സ് ആംപ്ലിഫയറിനെയും അതിനെ ബയസ് ചെയ്യാവുന്ന പല രീതികളെയും കുറിച്ച് നമ്മൾ ചർച്ചചെയ്തു MOS ട്രാൻസിസ്റ്ററിന്റെ ലളിതമായ ഉപയോഗമാണ് കോമൺ സോഴ്സ് ആംപ്ലിഫയർ ഇത് ഒരു MOS ട്രാൻസിസ്റ്ററിന്റെ ഇൻക്രെമെന്റൽ ചിത്രമാണ് ഔട്ട്പുട്ട് കണ്ടക്ടൻസ് gds ഒഴിവാക്കുന്നു ഇത് സ്വയം ഒരു വോൾട്ടേജ് നിയന്ത്രിത കറന്റ് സോഴ്സ് ആണ് ഒരു കോമൺ സോഴ്സ് ആംപ്ലിഫയറിൽ നമ്മൾ ചെയ്യുന്നത് സോഴ്സ് ഒരു വശത്ത് ബന്ധിപ്പിക്കുക എന്നതാണ് സിഗ്നൽ സോഴ്സ് മറുവശത്തേക്ക് ലോഡുചെയ്യുക തീർച്ചയായും കാരണം ട്രാൻസിസ്റ്ററിനെ ബയസ് ചെയ്യുന്ന രീതി അനുസരിച്ച് അധിക ഘടകങ്ങൾ ഉണ്ടാകാം എന്നാൽ ഇതാണ് അടിസ്ഥാന കോമൺ സോഴ്സ് ആംപ്ലിഫയർ ഇത് gmRL ആയ ഒരു ഗെയിൻ നൽകുന്നു ഇതാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു തരത്തിലുള്ള പ്രവർത്തനം ആവശ്യമുള്ള നിരവധി അവസരങ്ങളുണ്ട് അതാണ് ഇത് നിങ്ങൾക്ക് ഒരു നിശ്ചിത ഗെയിൻ നൽകുന്നത് എന്നാൽ ഗെയിൻ ലോഡ് റെസിസ്റ്റൻസിൽ ആശ്രയിച്ചിരിക്കുന്നു മാത്രമല്ല ഇത് തീർച്ചയായും ട്രാൻസിസ്റ്ററിന്റെ gm നെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ ലോഡ് റെസിസ്റ്റൻസിൽ നിന്ന് വിഭിന്നമായ വോൾട്ടേജ് ഗെയിൻ നിങ്ങൾക്ക് ആവശ്യമായിരിക്കാം അതിനാൽ നിങ്ങൾ ഏത് ലോഡ് കണക്റ്റുചെയ്യുന്നു എന്നത് പരിഗണിക്കാതെ തന്നെ നിങ്ങൾക്ക് അതേ ഗെയിൻ ലഭിക്കും അതിനാൽ ഇത് ഒരു സാധ്യതയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് MOS ട്രാൻസിസ്റ്റർ പോലെ ഒരു വോൾട്ടേജ് നിയന്ത്രിത കറന്റ് സോഴ്സ് ആവശ്യമായിരിക്കാം അത് gm നെ ആശ്രയിക്കരുത് സെമികണ്ടക്ടർ ഉപകരണങ്ങളുടെ ഈ gm പോലുള്ള ക്യാരക്ടറിസ്റ്റികസ് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ട്രാൻസ് കണ്ടക്ടൻസ് മറ്റ് പാരാമീറ്ററുകൾ എന്നിവ താപനിലയെ ശക്തമായി ആശ്രയിച്ചിരിക്കുന്നു മാത്രമല്ല അവ ഉപകരണത്തിൽ നിന്ന് ഉപകരണത്തിലേക്ക് വളരെയധികം വ്യത്യാസപ്പെട്ടിരിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് ഇപ്പോഴും MOS ട്രാൻസിസ്റ്റർ പോലുള്ള വോൾട്ടേജ് നിയന്ത്രിത കറന്റ് സോഴ്സ് ഉണ്ടായിരിക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഉണ്ടായിരിക്കുന്നത് ഉപയോഗപ്രദമാണ് പക്ഷേ ഈ ക്യാരക്ടറിസ്റ്റിക്സ് ട്രാൻസ് കണ്ടക്ടൻസിനെ ആശ്രയിക്കുന്നില്ല അത് കൂടുതൽ കൃത്യത നൽകുന്നു അതിനാൽ ചുരുക്കത്തിൽ മറ്റ് തരത്തിലുള്ള നിയന്ത്രിത സോഴ്സ് തിരിച്ചറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു വോൾട്ടേജ് നിയന്ത്രിത വോൾട്ടേജ് സോഴ്സ് വോൾട്ടേജ് നിയന്ത്രിത കറന്റ് സോഴ്സ് കറന്റ് നിയന്ത്രിത കറന്റ് സോഴ്സ് കറന്റ് നിയന്ത്രിത വോൾട്ടേജ് സോഴ്സ് എന്നിവയാണ് നാല് തരം നിയന്ത്രിത സോഴ്സുകൾ അതിനാൽ ഇവയെല്ലാം ഒരു MOS ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച് സാക്ഷാത്കരിക്കാനാകും എന്നിരുന്നാലും MOS സ്വയം ഒരു വോൾട്ടേജ് നിയന്ത്രിത കറന്റ് സോഴ്സ് ആയി കാണപ്പെടുന്നുവെങ്കിലും അതിന്റെ ട്രാൻസ് കണ്ടക്ടൻസ് അതിന്റെ ഓപ്പറേറ്റിംഗ് പോയിന്റിനെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കും ഇവയിലേതെങ്കിലും തിരിച്ചറിയുന്നതിന് നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന ആശയം നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട് സ്ഥിരമായ ഗേറ്റ് സോഴ്സ് വോൾട്ടേജിനുപകരം തന്നിരിക്കുന്ന കറന്റിൽ ട്രാൻസിസ്റ്ററിനെ ബയസ് ചെയ്യാൻ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉപയോഗിക്കുന്നതിനാൽ ഇപ്പോൾ നമ്മൾക്ക് ഇത് പരിചിതമാണ് ഈ നിയന്ത്രിത സോഴ്സ് തിരിച്ചറിയുന്നതിന് നമ്മൾ അതേ തത്ത്വം ഉപയോഗിക്കും ഇപ്പോൾ ഒരു MOS ട്രാൻസിസ്റ്ററിലെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് മൂന്ന് ടെർമിനലുകൾ ഉണ്ട് ഗേറ്റ് ഡ്രെയിൻ സോഴ്സ് ഡ്രെയിനും സോഴ്സ്സിനും ഇടയിൽ നിയന്ത്രിത സോഴ്സ് ഉണ്ട് നിയന്ത്രിത സോഴ്സ്ന്റെ മൂല്യം ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് vgs നെ ആശ്രയിച്ചിരിക്കുന്നു നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ചില അളവുകൾ തമ്മിലുള്ള വ്യത്യാസം സെൻസ് ചെയ്യണം വ്യത്യാസം കുറയുന്ന രീതിയിൽ ഔട്ട്പുട്ട് ഡ്രൈവ് ചെയ്യുന്നു നെഗറ്റീവ് ഫീഡ്ബാക്ക് അർത്ഥമാക്കുന്നത് ചില അളവുകൾ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ സെൻസ് ചെയ്യുന്നു ആഗ്രഹിച്ചതും യഥാർത്ഥവുമായത് എന്ന് ഞാൻ പറയും നിങ്ങൾ ഔട്ട്പുട്ട് ഡ്രൈവ് ചെയ്യുന്നു അതാണ് യഥാർത്ഥ ഔട്ട്പുട്ട് ഒരു വിധത്തിൽ ഇത് വ്യത്യാസം കുറക്കുന്നു അതാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് അതായത് ആവശ്യമുള്ളതും യഥാർത്ഥവുമായ ഔട്ട്പുട്ട് തമ്മിലുള്ള വ്യത്യാസം കുറയ്ക്കുന്ന രീതിയിൽ നിങ്ങൾ ഔട്ട്പുട്ട് ഡ്രൈവ് ചെയ്യുന്നു ഇത് ചെയ്യുന്നതിനായി ഞങ്ങൾ ഒരു MOS ട്രാൻസിസ്റ്റർ ഉപയോഗിക്കുമ്പോൾ ചില ലോഡുകളിലേക്ക് കറന്റ് അനുവദിക്കുകയോ അല്ലെങ്കിൽ ചില നോഡിലെ വോൾട്ടേജ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണം അതായത് ചില ബ്രാഞ്ചുകളിലേക്ക് പോകുന്ന വൈദ്യുത പ്രവാഹം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണം അല്ലെങ്കിൽ നോഡ് വോൾട്ടേജ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണ നിയന്ത്രിത കറന്റ് സോഴ്സ് ആണ് MOS ട്രാൻസിസ്റ്റർ എന്നത് നമ്മൾ എങ്ങനെ ചെയ്യും നമുക്ക് ഇപ്പോഴും ഇത് ഉപയോഗിച്ച് വോൾട്ടേജുകൾ നിയന്ത്രിക്കാൻ കഴിയും അതിനാൽ നിങ്ങൾക്ക് നോഡ് വോൾട്ടേജ് വർദ്ധിപ്പിക്കണമെങ്കിൽ അതിലേക്ക് ഒരു കറന്റ് വിടണം ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ് നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഒരു പാരാസൈറ്റിക് കപ്പാസിറ്റൻസും ആ പാരാസൈറ്റിക് കപ്പാസിറ്റൻസിലേക്ക് ഒഴുകുന്ന വൈദ്യുതധാരയും സങ്കൽപ്പിക്കാൻ കഴിയും ഒടുവിൽ വോൾട്ടേജ് ഉയരും അതുപോലെ നിങ്ങൾ നോഡ് വോൾട്ടേജ് കുറയ്ക്കണമെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് ഒരു കറന്റ് പുറത്തെടുക്കുന്നു തീർച്ചയായും നിങ്ങൾക്ക് ബ്രാഞ്ചിലെ കറന്റ് മാറ്റണമെങ്കിൽ നിയന്ത്രിത കറന്റ് സ്രോതസ്സിൽ നിന്ന് ആ ബ്രാഞ്ച് വഴി കറന്റ് പുറത്തെടുക്കുന്നു അതിനാൽ നമുക്ക് ഇപ്പോഴും നിയന്ത്രിത കറന്റ് സ്രോതസ്സ് ഉള്ളപ്പോൾ തന്നെ വോൾട്ടേജ് അല്ലെങ്കിൽ കറന്റ് നിയന്ത്രിക്കാൻ കഴിയും അത് സാധ്യമാണ് ചില അളവുകൾ തമ്മിലുള്ള വ്യത്യാസം നാം മനസ്സിലാക്കേണ്ടതുണ്ട് MOS ട്രാൻസിസ്റ്റർ എന്ത് തമ്മിലുള്ള വ്യത്യാസമാണ് സെൻസ് ചെയ്യുന്നത് അത് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് സെൻസ് ചെയ്യുന്നു ഇത് ഞങ്ങൾ മുമ്പ് സംസാരിച്ചു ഇത് യൂണിലാറ്ററൽ ഉപകരണമാണ് നിലവിലെ സോഴ്സ്ന്റെ മൂല്യം മാറ്റണമെങ്കിൽ അത് ചെയ്യാനുള്ള ഏക മാർഗ്ഗം ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് മാറ്റലാണ് അതിനാൽ എങ്ങനെയെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും ഉചിതമായ ദിശയിൽ ഗേറ്റ് സോഴ്സ് വോൾട്ടേജിലേക്ക് വിവർത്തനം ചെയ്യേണ്ടതുണ്ട് അതിനാൽ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് മാറുമ്പോൾ ഈ കറന്റ് മാറുന്നു അത് മാറ്റാനുള്ള ഏക മാർഗ്ഗമാണ് ഇത് ആവശ്യമുള്ളതും യഥാർത്ഥവുമായ മൂല്യം തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയെങ്കിലും അനുബന്ധ vgs ആയി പരിവർത്തനം ചെയ്യേണ്ടിവരുമ്പോൾ ഡ്രെയിൻ കറന്റ് മാറുന്നു അതിനാൽ ഗേറ്റ് സോഴ്സ് ഭാഗത്തേക്ക് നിയന്ത്രിത ഫീഡ്ബാക്ക് നിങ്ങൾ പ്രയോഗിക്കേണ്ടതുണ്ട് കൂടാതെ ഡ്രെയിൻ സോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ഔട്ട്പുട്ട് ലഭിക്കും അതിനാൽ ആ ഭാഗം വ്യക്തമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരു MOS ട്രാൻസിസ്റ്ററിൽ കാരണം ഗേറ്റിനും സോഴ്സിനും ഇടയിൽ പ്രയോഗിക്കുകയും ഡ്രെയിനിനും സോഴ്സിനും ഇടയ്ക്ക് അതിന്റെ ഫലം പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു അതിനാൽ ഇൻപുട്ടിന് ഗേറ്റിലേക്കോ സോഴ്സിലേക്കോ പോകാം ഔട്ട്പുട്ട് ഡ്രെയിനിൽ നിന്നോ സോഴ്സിൽ നിന്നോ വരാം രണ്ടിന്റെയും ഉദാഹരണങ്ങൾ കാണും തീർച്ചയായും ഡ്രെയിൻ ഒരു ഔട്ട്പുട്ട് മാത്രമേ ആകാവൂ നിങ്ങൾക്ക് ഡ്രെയിനിലേക്ക് എന്തെങ്കിലും പ്രയോഗിക്കാനും എന്തെങ്കിലും സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കാനും കഴിയില്ല ഗേറ്റ് ഒരു ഇൻപുട്ട് മാത്രമാണ് നിങ്ങൾക്ക് ഗേറ്റിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാനാവില്ല അതിൽ നിന്ന് സിഗ്നലുകളൊന്നും പുറത്തുവരുന്നില്ല സോഴ്സ് രണ്ടിലേതും ആകാം അതിനാൽ സോഴ്സ് നിയന്ത്രിക്കുന്ന വശത്തിന്റെയും നിയന്ത്രണ വശത്തിന്റെയും ഭാഗമാണ് അത് ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ആകാം ഇവ രണ്ടിന്റെയും ഉദാഹരണങ്ങൾ വീണ്ടും പറയും ഇപ്പോൾ MOS ട്രാൻസിസ്റ്ററിന്റെ രീതി കാരണം ചില നിയന്ത്രണങ്ങളുണ്ട് അതിനർത്ഥം നമ്മൾക്ക് നാല് ടെർമിനലുകളുള്ള ചില സാങ്കൽപ്പിക ഉപകരണം ഉണ്ടായിരുന്നുവെന്നും നിയന്ത്രിത നിയന്ത്രണ വശങ്ങൾ പൂർണ്ണമായും വേറിട്ടതാണെന്നും പറയട്ടെ അതിനാൽ ഇത് vgs ആയിരുന്നെന്ന് നമുക്ക് പറയാം ഇത് gmvgs ആയിരുന്നു ഞാൻ ഈ ടെർമിനലിനെ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് വിളിക്കും ഇതിൽ ഒന്നും രണ്ടും ഇൻപുട്ടിന് മാത്രമാണെന്നും മൂന്നും നാലും ഔട്ട്പുട്ടിന് മാത്രമാണെന്നും വ്യക്തമാണ് ഈ ചിത്രവും വളരെ സമമിതിയാണ് അതേസമയം നമ്മുടെ പക്കലുള്ള യഥാർത്ഥ MOS ട്രാൻസിസ്റ്റർ ഇത് ഇതുപോലെയല്ല ഇവ രണ്ടും ഒരുമിച്ചാണ് ഒരു പൊതു ടെർമിനൽ ഉണ്ട് അതുവഴി ചില സർക്യൂട്ടുകളിൽ ചില പരിമിതികളും നമ്മൾ തിരിച്ചറിഞ്ഞു മുന്നോട്ട് പോകുമ്പോൾ ഞാൻ അവയെ ചൂണ്ടിക്കാണിക്കും അതിനാൽ അടുത്ത നിരവധി പാഠങ്ങളിലെ നമ്മുടെ ലക്ഷ്യം ഒരു MOS ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച് നിയന്ത്രിത സോഴ്സ് തിരിച്ചറിയുക എന്നതാണ് അത് ചെയ്യുന്നതിന് നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉപയോഗിക്കും